ഊർജ്ജ സംരക്ഷണവും ഉപയോഗശൂന്യമാകാവുന്ന ചൂട് വീണ്ടെടുക്കലും എന്ന ആശയം സംബന്ധിച്ച നമ്മളുടെ കോഴ്സിന്റെ അടുത്ത പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനാൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ താപോർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ ഇന്ന് തുടരും കഴിഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങളിൽ താപോർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന ആദ്യത്തെ തരം ഉപകരണമായ തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വൈദ്യുത നിലയങ്ങളിലേതുപോലെ ഒരു ഇന്റർമീഡിയറ്റ് മെക്കാനിക്കൽ ഊർജ്ജ പരിവർത്തനം ഇതിന് ആവശ്യമില്ല ടർബോമഷിനറിയിലെ പോലെയുള്ള ചലിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല ഉദാഹരണത്തിന് പമ്പുകളും ടർബൈനുകളും അതുപോലെ ജലമോ ഓർഗാനിക് ദ്രവങ്ങളോ പോലെയുള്ള പ്രവർത്തന ദ്രാവകങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അതിനാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് താപോർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന മറ്റൊരു ഉപകരണത്തെ അല്ലെങ്കിൽ മറ്റൊരു സാങ്കേതിക വിദ്യയെ കുറിച്ച് പഠിക്കും അതിനെയാണ് മാഗ്നെറ്റോ ഹൈഡ്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ MHD എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സ് നമുക്ക് ആദ്യമായി ഭൌതികശാസ്ത്രത്തിൽ നിന്ന് ഫാരഡെയുടെ വൈദ്യുതകാന്തിക പ്രേരണ നിയമം ഓർക്കാം ഒരു ചാലകവും കാന്തികക്ഷേത്രവും പരസ്പരം ആപേക്ഷികമായി ചലിക്കുകയാണെങ്കിൽ കണ്ടക്ടറിൽ ഒരു വൈദ്യുത വോൾട്ടേജ് പ്രേരിപ്പിക്കപ്പെടുന്നു എന്നാണ് ഫാരഡെ പറഞ്ഞത് അതിനാൽ നിങ്ങൾക്ക് ഒരു കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ കണ്ടക്ടർ യഥാർത്ഥത്തിൽ കാന്തികക്ഷേത്രത്തിനുള്ളിൽ നീങ്ങുന്നുവെങ്കിൽ അല്ലെങ്കിൽ കാന്തികക്ഷേത്രം കണ്ടക്ടറിനുള്ളിൽ നീങ്ങുന്നുവെങ്കിൽ അത് രണ്ട് തരത്തിലും ആകാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് ആ ചാലകത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു വൈദ്യുത വോൾട്ടേജിന് കാരണമാകും ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സിന്റെ പ്രവർത്തന തത്വമാണ് അതെന്തു ചെയ്യും മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സിൽ നമുക്ക് ഇതിനകം തന്നെ ശക്തമായ ഒരു കാന്തികക്ഷേത്രമുണ്ട് അത് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇവിടെ ഞാൻ ഈ 2 സോളിനോയിഡുകൾ കാണിക്കുന്നത് ഇതൊരു കാന്തികക്ഷേത്രമാണ് അതിനാൽ നമുക്ക് ഈ കോൺഫിഗറേഷൻ നോക്കാം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഡക്ട് ഉണ്ട് അതിലൂടെ ഒരു വാതകം ഒഴുകുന്നു ഒരു വശത്ത് ഈ വാതകത്തിന്റെ പ്രവാഹത്തിന് ലംബമായി നമുക്ക് ഒരു കാന്തികക്ഷേത്രം പ്രവർത്തിക്കുന്നു അതാണ് കാന്തികക്ഷേത്രത്തിന്റെ ദിശ ഇവിടെ കാണിക്കുന്നത് അതിനെ B കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത് നമുക്ക് കാന്തിക മണ്ഡലം വേണം ഒരു കണ്ടക്ടർ വേണം രണ്ടും പരസ്പരം ആപേക്ഷികമായി ചലിക്കുന്നതായിരിക്കണം അപ്പോൾ നമുക്ക് കണ്ടക്ടർ എങ്ങനെ കിട്ടും അത് മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സിന്റെ കാതലാണ് അത് എന്താണ് പറയുന്നത് ഉയർന്ന ഊഷ്മാവിൽ ചലിക്കുന്ന ചൂടുള്ള അയോണൈസ്ഡ് വാതകം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത് ചലിക്കുന്ന ചാലകമായി കരുതാം ഇനി എങ്ങനെയാണ് ഗ്യാസ് ഒരു കണ്ടക്ടറാകുന്നത് എന്നതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം അതിനാൽ ഒരു അയോണൈസ്ഡ് വാതകം വളരെ ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കപ്പെടുകയാണെങ്കിൽ വളരെ ഉയർന്ന താപനില എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് 3000oC ന് അടുത്ത താപനിലയെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ഉയർന്ന താപനിലയിലേക്ക് വാതകം ചൂടാക്കുകയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകൾക്ക് അവയുടെ ഉയർന്ന താപനില കാരണം ഉയർന്ന അളവിലുള്ള പരിക്രമണപഥങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും ആത്യന്തികമായി ചില ഊർജ്ജ തലങ്ങളിൽ അവയ്ക്ക് അവയുടെ ബാഹ്യ പരിക്രമണപഥത്തിൽ നിന്ന് സ്വതന്ത്ര ഇലക്ട്രോണുകളായി മാറാനും അതുവഴി വാതകം അയോണീകരിക്കപ്പെടുകയും ചാലകമാവുകയും ചെയ്യാം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു വളരെ ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കി വാതകം അയോണീകരിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ഉത്തേജിതമായ ആറ്റങ്ങളുടെ ചില വാലൻസ് ഇലക്ട്രോണുകൾ ഉയർന്ന അളവിലുള്ള അവസ്ഥകളിലേക്ക് നീങ്ങുകയും ആത്യന്തികമായി ഒരു ഘട്ടത്തിലെത്തുകയും ചെയ്യുന്നു അവിടെ അവയ്ക്ക് സ്വതന്ത്ര ഇലക്ട്രോണുകളായി മാറാൻ കഴിയും അപ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് ഉയർന്ന വേഗതയിൽ ഒഴുകുന്ന ഒരു അയോണൈസ്ഡ് വാതകമുണ്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള കാന്തികക്ഷേത്രത്തിന് ലംബമായി ഈ ദിശയിലേക്ക് ഒഴുകുന്ന ചൂടുള്ള അയോണൈസ്ഡ് വാതകം നിങ്ങൾക്കുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളത് നമുക്ക് ചലിക്കുന്ന ഒരു കണ്ടക്ടർ ഉണ്ടോ ഉണ്ട് നമുക്ക് ചലിക്കുന്ന അയോണൈസ്ഡ് വാതകമുണ്ട് കുറച്ച് ഇലക്ട്രോണുകൾ പുറത്തുവിടുന്നതിലൂടെ അത് ഒരു കണ്ടക്ടറായി മാറിയിരിക്കുന്നു നമുക്ക് കാന്തികക്ഷേത്രം ഉണ്ടോ ഉണ്ട് അവ പരസ്പരം ലംബമാണോ കാന്തികക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കണ്ടക്ടർ ചലിക്കുന്നുണ്ടോ അതിനാൽ ഈ വ്യവസ്ഥകളെല്ലാം നമ്മൾക്ക് തൃപ്തികരമാണ് ഇനി മൂന്നാമത്തെ ദിശയിൽ നമ്മൾ കുറച്ച് ഇലക്ട്രോഡുകൾ വച്ചാൽ ഈ ഡക്ടിന്റെ സീലിംഗിലും തറയിലും അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതുപോലെ ഈ സെഗ്മെന്റഡ് ഇലക്ട്രോഡുകൾ സൂചിപ്പിക്കുന്നു നമ്മൾ ഇപ്പോൾ ഇതിലുടനീളമുള്ള വോൾട്ടേജ് അളക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പരിമിത വോൾട്ടേജ് അളക്കാൻ പോകുന്നു അത് ഒരു DC വോൾട്ടേജ് ആയിരിക്കും തെർമോഇലക്ട്രിക് ജനറേറ്ററുകളിലെന്നപോലെ നമുക്ക് ഒരു ഡിസി ഇലക്ട്രിക് സ്രോതസ്സ് ലഭിക്കും അതിനാൽ ഇതാണ് മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സിന്റെ അടിസ്ഥാന പ്രവർത്തന തത്വം നമ്മൾ ഡക്റ്റിൽ ഒരു ബാഹ്യ കാന്തികക്ഷേത്രം നൽകിയിട്ടുണ്ട് അതിലൂടെ ചൂടുള്ള അയോണൈസ്ഡ് വാതകം വളരെ ഉയർന്ന താപനിലയിൽ ഒഴുകുന്നു കാരണം അത് അയോണൈസ് ചെയ്തതിനാൽ അത് ഒരു ചലിക്കുന്ന ചാലകമാണ് അതിനാൽ ഫാരഡെയുടെ വൈദ്യുതകാന്തിക പ്രേരണ നിയമം കാരണം നമുക്ക് മൂന്നാമത്തെ ദിശയിൽ വോൾട്ടേജ് ലഭിക്കാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ പാഴായ താപം വീണ്ടെടുക്കൽ സംബന്ധിച്ച് നമ്മളെ ഇത് എങ്ങനെ സഹായിക്കുന്നു ഈ അയോണൈസേഷൻ സാധ്യതയിലെത്താൻ ഒരു സാധാരണ വാതകത്തിന് വളരെ ഉയർന്ന താപനില ആവശ്യമാണ് അത് കൈവരിക്കാൻ കഴിയാത്തത്ര വളരെ ഉയർന്നതാണ് എന്നിരുന്നാലും നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ചില പദാർത്ഥങ്ങളുടെ ഒരു ചെറിയ അംശം ഉദാഹരണത്തിന് ക്ഷാരമോ ലോഹമോ ആയ സീസിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഈ കണികകൾ ചൂടുള്ള വാതകത്തിൽ ചേർക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഈ അയോണൈസേഷൻ 3000oC അല്ലെങ്കിൽ അതിൽ താഴെയുള്ള താഴ്ന്ന ഊഷ്മാവിൽ സംഭവിക്കാം അങ്ങനെ എങ്കിൽ ഏകദേശം 10 mhom ന്റെ മതിയായ വൈദ്യുതചാലകത നമുക്ക് ലഭിക്കും വൈദ്യുതചാലകതയുടെ യൂണിറ്റ് mhom ആണെന്ന് നിങ്ങൾ ഓർക്കുക ഇപ്പോൾ നമ്മൾ ജ്വലന വാതകങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ആൽക്കലൈൻ പദാർത്ഥ കണങ്ങളുടെ ഒരു ചെറിയ അംശം നിങ്ങൾ വിതച്ചാൽ നമുക്ക് ഗണ്യമായ അളവിൽ വൈദ്യുതചാലകത കൈവരിക്കാൻ കഴിയും അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് വാതക ചാലകതയും അയോണൈസേഷനും കാണാൻ കഴിയും ഞാൻ സംസാരിക്കുന്ന അയോണൈസേഷൻ ശതമാനം ഇവിടെ 1 ശതമാനം മാത്രമാണ് നിങ്ങൾക്ക് നേടാനാകുന്ന പരമാവധി ചാലകത y അക്ഷത്തിൽ 100 കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് കാണുക നമ്മൾ എന്താണ് കാണുന്നത് 90 നേടുന്നതിന് 1 മാത്രം കണങ്ങൾ ചേർക്കേണ്ടി വരുന്നുള്ളു എന്നതാണ് അതിനാൽ നമുക്ക് ആവശ്യമുള്ളത് വളരെ ചെറിയ അളവിലുള്ള വിത്ത് കണങ്ങളാണ് എന്നാൽ ഈ കണികകൾ വളരെ ദോഷകരമല്ല പക്ഷെ അവ അപകടകരമാണ് അതിനാൽ വൈദ്യുതോർജ്ജം നേടിയെടുത്താൽ അയോണൈസ്ഡ് വാതകത്തിൽ നിന്ന് ഈ വിത്ത് കണികകൾ പിടിച്ചെടുക്കുന്നത് വളരെ പ്രധാനമാണ് അതിനാൽ ഒരു MHD ജനറേറ്റർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ അത് എഴുതട്ടെ ഇതാണ് പേര് മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് ജനറേറ്റർ അതുകൊണ്ടാണ് ഇതിനെ MHD എന്ന് വിളിക്കുന്നത് അപ്പോൾ MHD ജനറേറ്ററിന് എന്താണ് വേണ്ടത് ഇതിന് ഉയർന്ന താപനിലയിൽ ചൂടുള്ള വാതകം ആവശ്യമാണ് 1 സീസിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഇതിൽ ചേർക്കണം നമുക്ക് ഒരു ബാഹ്യ കാന്തികക്ഷേത്രം ആവശ്യമാണ് ഈ വാതകം ഉയർന്ന വേഗതയിൽ നീങ്ങേണ്ടതുണ്ട് അതിനാൽ ആദ്യ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു ആക്സിലറേഷൻ നോസിൽ ഉള്ള ഒരു ഡക്ട് വഴിയാണ് ഇത് സാധാരണയായി കൈവരിക്കുന്നത് നിങ്ങളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻറെ അറിവിൽ നിന്ന് ഒരു കൺവേർജിങ്ങ് സെക്ഷനിലൂടെ നിങ്ങൾ അത് ഒഴുകാൻ ഇടയാക്കിയാൽ അതേ വോളിയം ഫ്ലോ റേറ്റിന് ഉയർന്ന വേഗത കൈവരിക്കാമെന്ന് നിങ്ങൾക്കറിയാം വൈദ്യുത വോൾട്ടേജിന് കാരണമാകുന്ന ഈ ചലിക്കുന്ന ചാലകത്തെ നാം സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കും വൈദ്യുതോർജ്ജ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം അതുപോലെ വൈദ്യുതോർജ്ജ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന വഴികളിൽ ഒന്ന് ഇനിപ്പറയുന്നതാണ് നമുക്ക് അത് എഴുതാം വൈദ്യുത നിലയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് MHD ഉപയോഗിക്കാൻ പോകുന്നത് ഭൌതികശാസ്ത്രത്തിൽ പുരോഗതി കൈവരിച്ച ആധുനിക കാലത്ത് ചൂളകൾക്ക് 3000oC ൽ കൂടുതലുള്ള താപനിലയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനും അതിനെ നേരിടാനും കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ മറുവശത്ത് ടർബൈനുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റീം ടർബൈനുകൾ അത് നമ്മളുടെ മെറ്റലർജിക്കൽ നിയന്ത്രണങ്ങളും വിശ്വാസ്യതയിലുള്ള നിയന്ത്രണങ്ങളും മറ്റ് പാരാമീറ്ററുകളും കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അത് നമ്മൾ സാധാരണയായി 850 900 1000oC വരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ നിയന്ത്രണത്തിന്റെ ഫലമായി ഒരു പവർ പ്ലാന്റിലെ ചൂളയിൽ പ്രകൃതി വാതകം അടിസ്ഥാനമാക്കിയുള്ള നമ്മൾ പറയുന്ന ജ്വലന വാതകങ്ങളുടെ താപനില നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനാൽ അതാണ് പ്രശ്നം അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വഴി 2500oC 2700oC എന്നിങ്ങനെയുള്ള ഉയർന്ന താപനിലയിൽ തുടക്കത്തിൽ ജ്വലന വാതകങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇന്ധനം കത്തിക്കുന്ന എന്റെ ബ്ലാസ്റ്റ് ഫർണസ്സിനു ഈ ജ്വലനം നടക്കുന്നിടത്ത് അത്തരം താപനിലയെ നേരിടാൻ കഴിയും അതിനാൽ ഒരു പ്രശ്നവുമില്ല അതിനാൽ അത്തരമൊരു കേസ് സംഭവിച്ചാൽ ഞാൻ എന്തുചെയ്യും ഈ ഉയർന്ന ഊഷ്മാവിൽ ഈ ചൂടുള്ള ജ്വലന വാതകങ്ങൾ പുറത്തുവരുന്നു അതിനാൽ ആദ്യം ഇത് ഒരു താപ സ്രോതസ്സായി ബോയിലറിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഒരു MHD ഡക്റ്റിലൂടെ ഒഴുക്കുകയും അതിൽ നിന്ന് കുറച്ച് വൈദ്യുതോർജ്ജം പുറത്തെടുക്കുകയും ചെയ്യും എന്നിട്ട് അത് കുറച്ചു തണുത്തുകഴിഞ്ഞാൽ ഞാൻ അത് ബോയിലറിലൂടെ കടത്തിവിടും അവിടെ അത് വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കും അതുതന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനാൽ ഞാൻ അത് എഴുതട്ടെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആധുനിക ചൂളകൾക്ക് ഏകദേശം 3000oC താപനിലയെ നേരിടാൻ കഴിയും അതേസമയം ടർബൈനുകളുടെ ഇൻലെറ്റ് താപനില 1000oC ൽ താഴെയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ കാര്യം എന്താണെന്നു വെച്ചാൽ ഒരു MHD ഡക്റ്റിൽ ജ്വലന വാതകത്തിൽ കണികകൾ വിതച്ചതിനുശേഷം ആദ്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് ബോയിലറിൽ ഉപയോഗിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം എനിക്ക് കിട്ടുന്ന പരമാവധി താപനില എന്താണ് എന്നായിരിക്കും മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സ് താപനിലയിൽ ഞാൻ സംസാരിക്കുന്നത് ഏകദേശം 3000oC ആണ് എന്റെ അന്തരീക്ഷ താപനില 30oC ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ എനിക്ക് 2700 ന്റെ ഒരു വലിയ താപനില ഗ്രേഡിയന്റ് ഉണ്ട് എനിക്ക് 3000 ഡിഗ്രി 30 ഡിഗ്രിയായി കുറയ്ക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അത് തണുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനൊപ്പം ഞാൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ MHD ഉപയോഗിക്കുമ്പോൾ എന്റെ Carnot കാര്യക്ഷമത 90 എന്ന ക്രമത്തിൽ വളരെ ഉയർന്നതായിരിക്കും കെൽവിൻ എടുത്താലും 3000 ൽ 2700 കണക്കാക്കിയാൽ അതിനാൽ 3300 ൽ 2700 എന്ന് നോക്കുമ്പോൾ കാർനോട്ട് കാര്യക്ഷമത 90 വരെ വളരെ ഉയർന്നതായിരിക്കും അതിനാൽ എനിക്ക് മാന്യമായ കാര്യക്ഷമത തലത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കൂടി ഈ ജ്വലന വാതകത്തിൽ നിന്ന് എനിക്ക് ധാരാളം വൈദ്യുതോർജ്ജം വേർതിരിച്ചെടുക്കാൻ കഴിയും നിർഭാഗ്യവശാൽ എല്ലാ നല്ല കാര്യങ്ങളും ഒരുമിച്ച് വരുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് വച്ചാൽ താപനില 2000 ഡിഗ്രിയിൽ താഴെ വരുന്നതിനാൽ വാതകത്തിന്റെ അയോണൈസേഷൻ സാധ്യത കുറയുന്നു അതിനാൽ അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് T 2000K നിൽ ആകുമ്പോൾ ഇലക്ട്രോണുകൾ അയോണുകളുമായി ചേർന്ന് ന്യൂട്രൽ ആറ്റങ്ങൾ രൂപപ്പെടുകയും വൈദ്യുത ചാലകത വളരെ കുറയുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ നമ്മൾക്ക് ഇത് 3000 മുതൽ 30 വരെയുള്ള താപനില പരിധിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്തെന്നാൽ ഏകദേശം 2000K എത്തുമ്പോൾ MHD ഔട്ട്പുട്ട് നിയന്ത്രിച്ചിരിക്കുന്നു എന്നിരുന്നാലും നമുക്കുള്ള ആ ശ്രേണിയിൽ നിന്ന് എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ ഇവിടെ ഒരു സ്കീമാറ്റിക് വരയ്ക്കാം എനിക്ക് ഒരു MHD ഡക്റ്റ് ഉള്ള ഒരു സാഹചര്യം നമുക്ക് പരിഗണിക്കാം ഇത് ഇങ്ങനെ പോകുന്നു ഇതുവഴി ചൂടുള്ള വാതകം വരുന്നു അതുപോലെ ജ്വലനത്തിന് എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് തീർച്ചയായും വായു ആവശ്യമാണ് എനിക്ക് ഇന്ധനം ആവശ്യമാണ് അതിനാൽ ഇവ രണ്ടും ആവശ്യമാണ് അതുപോലെ ഞാൻ MHD നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ ചേർക്കാനുള്ള കണികകളോ സീഡിംഗ് വാതകമോ ആവശ്യമാണ് ഇപ്പോൾ എനിക്ക് ഒരു MHD ഡക്റ്റ് ഉണ്ട് അതിലൂടെ ഞാൻ ഇത് ഒഴുകാൻ അനുവദിക്കുന്നു ഇത് 3000oC ആണ് പിന്നെ അത് പുറത്തുപോകുന്നതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാന്തിക മണ്ഡലം ഇവിടെ സൃഷ്ടിക്കുന്നു ഈ പച്ച ഡോട്ട് കൊണ്ട് ഞാൻ അതിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് കാന്തികക്ഷേത്രമാണ് അങ്ങനെ എനിക്ക് വൈദ്യുതോർജ്ജം നേടാനാകും അതിനാൽ ഇത് DC ആണെന്നുള്ള എന്റെ വാക്കുകൾ വീണ്ടും അടയാളപ്പെടുത്തുക അതിനാൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുത പ്രവാഹം DC ആണ് അതിനാൽ നമുക്ക് വേണ്ടത് ഇത് AC ആയി പരിവർത്തനം ചെയ്യാനായി ഒരു ഇൻവെർട്ടർ ആവശ്യമാണ് അങ്ങനെ ഇത് എനിക്ക് AC ഔട്ട്പുട്ട് നൽകും അതിനാൽ ഈ സമയമാകുമ്പോഴേക്കും വാതകം തണുത്തു അപ്പോൾ എനിക്ക് എന്റെ പതിവ് ബോയിലർ ഘട്ടങ്ങൾ ഉണ്ടാകാം അത് എക്കണോമൈസർ ബോയിലർ പിന്നെ സൂപ്പർഹീറ്റർ അതിനാൽ എനിക്ക് ഒരു ഇക്കണോമൈസർ ഉണ്ട് എനിക്ക് ബാഷ്പീകരണ യന്ത്രമുണ്ട് തുടർന്ന് എനിക്ക് സൂപ്പർഹീറ്ററും ഉണ്ട് അതിനാൽ ഇപ്പോൾ ഇവിടെയാണ് വാതകം ഒഴുകുന്നത് ബോയിലറിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകുമ്പോൾ പതുക്കെ താപനില നഷ്ടപ്പെടും ആദ്യം അത് ഏറ്റവും ചൂടേറിയപ്പോൾ അത് സൂപ്പർഹീറ്റർ ആയിരുന്നു പിന്നെ ബാഷ്പീകരണ യന്ത്രം പിന്നെ ഇക്കണോമൈസർ ഒടുവിൽ നമുക്ക് എന്ത് ലഭിക്കും ഇതാണ് എന്റെ നീരാവി അത് സ്റ്റീം ടർബൈനിലേക്ക് പോകുന്നു അവിടെ നിന്നും എനിക്ക് വൈദ്യുതി ലഭിക്കും കൂടാതെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഞാൻ വലിച്ചെടുത്ത ഈ വായു ഇതിലൂടെയും കടത്തിവിടാം ഇവിടെ ഇത് ഒരു ഘട്ടമായിരിക്കാം അതിനാൽ ഈ വായു ഇതുവഴിയും വരാം അങ്ങനെ അത് ജ്വലന അറയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ചൂടാക്കാം അതുകൊണ്ട് അതിനെ എയർ പ്രീഹീറ്റർ എന്ന് ഞാൻ പറയും APH എന്നത് എയർ പ്രീ ഹീറ്റർ ആണെന്ന് ഞാൻ എഴുതട്ടെ അതുപോലെ ഇവിടെ Eco എന്നത് ഇക്കണോമൈസർ Evap എന്നത് ഇവാപ്പറേറ്റർ അതുപോലെ SH എന്നത് സൂപ്പർ ഹീറ്റർ സാധാരണയായി ഈ വായു വരുന്നത് കംപ്രസർ മുതലായവയിൽ നിന്നായിരിക്കാം പക്ഷേ നമുക്ക് അത് കൂടുതൽ ചൂടാക്കാൻ ഈ പ്രക്രിയ വഴി കഴിയും പ്രീഹീറ്റിംഗ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘട്ടമായിരിക്കാം ഒടുവിൽ അവസാനത്തേത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചേർത്ത കണികകൾ പിടിച്ചെടുക്കലാണ് അതിനാൽ കണികകൾ പിടിച്ചെടുക്കുകയും തിരികെ അയയ്ക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ കണികകൾ അപകടകരമാണ് അതിനാൽ നമുക്ക് അത് അവിടെ അനുവദിക്കാനാവില്ല കണികകൾ പിടിച്ചെടുക്കാനും വീണ്ടെടുക്കാനും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം ഉണ്ടായിരിക്കണം ESP പോലെയുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപിറ്റേറ്ററിനുള്ളിൽ ഇത് സാധാരണയായി ചെയ്യാൻ കഴിയും അങ്ങനെ ഒടുവിൽ പുറത്തുവരുന്ന എക്സ്ഹോസ്റ്റ് വാതകം കണികകളില്ലാത്തതായിരിക്കും അതിനാൽ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഈ ഡയഗ്രം എല്ലാം കൂടി ചേർന്ന് മനസ്സിലാക്കാൻ അൽപ്പം ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളെ ഒരു MHD ഡക്റ്റ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ കാണിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഈ ജ്വലന വാതകങ്ങളുണ്ട് ജ്വലന അറയിൽ ജ്വലനം നടക്കുന്നു നിങ്ങൾക്ക് വളരെ ഉയർന്ന താപനിലയിൽ കത്തുന്ന വാതകങ്ങളുണ്ട് നമ്മൾ പേപ്പറിന്റെ തലത്തിന് ലംബമായി ഒരു കാന്തികക്ഷേത്രം നൽകിയിട്ടുണ്ട് കണികകൾ വിതറിയ ചൂടുള്ള അയോണൈസ്ഡ് വാതകങ്ങൾ ഇപ്പോൾ എന്റെ ഇടത്തുനിന്ന് വലത്തോട്ട് x ദിശയിൽ നീങ്ങുന്നു അതിനാൽ ഇനി ഞാൻ y ദിശയിൽ ഉടനീളമുള്ള വോൾട്ടേജ് അളക്കുകയാണെങ്കിൽ എനിക്ക് ഒരു DC വോൾട്ടേജ് ലഭിക്കും അത് AC ആയി പരിവർത്തനം ചെയ്യാൻ ഞാൻ ഒരു ഇൻവെർട്ടർ ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സമയമായപ്പോഴേക്കും മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക് ഫ്ലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ചു വാതക താപനില ഏകദേശം 2000K അല്ലെങ്കിൽ അതിൽ താഴെയായി കുറഞ്ഞിരിക്കാം ഇപ്പോൾ ഇത് മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക് ഉൽപാദനത്തിന് ഉപയോഗപ്രദമല്ല അതിനാൽ നമ്മൾ എന്തുചെയ്യും ഒരു ബോയിലറിലെ താപ സ്രോതസ്സെന്ന നിലയിലും എയർ പ്രീഹീറ്റിംഗിനും വേണ്ടിയുള്ള സാധാരണ പ്രവർത്തനമാണ് ഇപ്പോൾ ഗ്യാസ് നിർവഹിക്കാൻ പോകുന്നത് അതാണ് ഇത് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ലൈൻ സർക്യൂട്ട് കാണിക്കുന്നത് എയർ പ്രീഹീറ്റിംഗ് ആണ് ഗ്രീൻ ലൈൻ സർക്യൂട്ട് കാണിക്കുന്നത് ബോയിലർ ഇക്കണോമൈസർ ഇവാപറേറ്റർ സൂപ്പർ ഹീറ്ററുമാണ് പിന്നെ ഇത് നമുക്ക് അറിയാവുന്ന ഫീഡ് വാട്ടർ പമ്പിൽ നിന്നാണ് വരുന്നത് അതിനാൽ ഒരു സർക്യൂട്ട് മുഴുവനായും ഞാൻ വരയ്ക്കുന്നില്ല ഈ സമയത്ത് ഒരു റാങ്കിൻ സൈക്കിൾ അല്ലെങ്കിൽ ഒരു സ്റ്റീം ടർബൈൻ സൈക്കിൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ജ്വലന വാതകങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിന്റെ സാധാരണ പ്രവർത്തനത്തിനുവേണ്ടിയാണ് എന്നാൽ ഒടുവിൽ വാതകം അന്തരീക്ഷത്തിലേക്ക് വിടുന്നതിന് മുമ്പ് വിതറിയ കണികകൾ പിടിച്ചെടുക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ആ കണികകൾ അന്തരീക്ഷത്തിലേക്ക് പോയാൽ അത് ഓക്സൈഡുകളിലേക്കും ഹൈഡ്രോക്സൈഡുകളിലേക്കും മാറുകയും അത് വായു മലിനീകരണത്തിന് കാരണമാകുകയും ചെയ്യും അതിനാൽ അത് പരിസ്ഥിതിയിൽ പോകാൻ അനുവദിക്കുക സാധ്യമല്ല അതിനാൽ ആ കണികകൾ പിടിച്ചെടുക്കണം തുടർന്ന് അവയെ MHD ഡക്ടിലേക്ക് തിരികെ അയയ്ക്കാം അതിനാൽ ഞാൻ ഇവിടെ വീണ്ടും കാണിക്കുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറന്റ് DC ആണ് എസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് നമ്മൾക്ക് ഒരു ഇൻവെർട്ടർ ആവശ്യമാണെന്ന് ഓർമ്മിക്കുക അതുപോലെ സീഡിംഗ് ഘടകങ്ങൾ പിടിച്ചെടുക്കുകയും വേണം കാരണം അല്ലാത്തപക്ഷം അത് കടുത്ത വായു മലിനീകരണത്തിന് കാരണമാകുകയും ചെയ്യും അതിനാൽ പുനരുപയോഗത്തിനായി കണികകൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപിറ്റേറ്റർ അങ്ങനെ നമ്മൾ മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു നമ്മൾ പഠിച്ചത് ഒരു ചെറിയ മൊഡ്യൂളായിരുന്നു എന്താണ് മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സ് എന്ന് നോക്കിയാണ് നമ്മൾ ആരംഭിച്ചത് ഫാരഡെയുടെ വൈദ്യുതകാന്തിക വികിരണ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമുക്ക് ഒരു ചലിക്കുന്ന ചാലകവും പരസ്പരം ലംബമായി ഒരു കാന്തികക്ഷേത്രവും ഉണ്ടെങ്കിൽ അപ്പോൾ മൂന്നാമത്തെ ദിശയിൽ ഒരു വൈദ്യുത വോൾട്ടേജ് മനസ്സിലാക്കാൻ കഴിയും ഈ വോൾട്ടേജ് DC ആയിരിക്കും ചൂടുള്ള ജ്വലന വാതകങ്ങളെ അയോണൈസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഒരു ചലിക്കുന്ന കണ്ടക്ടർ രൂപപ്പെടുത്തുന്നത് കാരണം അത് വളരെ ഉയർന്ന ഊഷ്മാവിന് വിധേയമാകുമ്പോൾ ചില ഇലക്ട്രോണുകൾക്ക് പുറത്തേക്ക് പോകാൻ ആവശ്യമായ ഊർജ്ജം കിട്ടും എന്നാൽ ആ താപനില വളരെ ഉയർന്നതാണ് എന്നാൽ നിങ്ങൾ ആ വാതകത്തിൽ അൽപം സീസിയമോ പൊട്ടാസ്യമോ ലോഹമോ ക്ഷാരമോ ഉള്ള കണികകൾ വിതച്ചാൽ സംഭവിക്കുന്നത് അത് അയോണീകരിക്കാൻ കഴിയുന്ന താപനിലയായി മാറുന്നു എന്നതാണ് പിന്നീട് 3000oC ലേക്ക് താഴ്ത്തുന്നു അതായത് നമ്മുടെ ആധുനിക ചൂളകൾക്ക് താങ്ങാൻ കഴിയുന്ന താപനിലയാണത് അതിനാൽ ആധുനിക ചൂളയിൽ ജ്വലന വാതകങ്ങൾ 3000oC വരെ പോകുമെന്ന് നമ്മൾ പറഞ്ഞു എന്നിരുന്നാലും മെറ്റലർജിക്കൽ പരിമിതികൾ കാരണം ടർബൈൻ ഇൻലെറ്റ് താപനില 1000 ഡിഗ്രിയിൽ താഴെയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ജ്വലന വാതകങ്ങളെ ഉയർന്ന താപനിലയിൽ എത്താൻ അനുവദിക്കുകയും അയോണൈസ്ഡ് വാതകം ഉപയോഗിച്ച് മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സ് വഴി അല്ലെങ്കിൽ ഒരു MHD ജനറേറ്റർ ഉപയോഗിച്ച് കുറച്ച് അധിക വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം വാതകം 2000K ൽ താഴെയായി തണുത്തുകഴിഞ്ഞാൽ അവിടെ അതിന്റെ അയോണൈസേഷൻ സാധ്യത നഷ്ടപ്പെടും പിന്നീട് ബോയിലറിന്റെ താപ സ്രോതസ്സായും എയർ പ്രീഹീറ്റിംഗിനും ആവശ്യത്തിന് ചൂടുള്ള ആ വാതകം നമുക്ക് ഉപയോഗിക്കാം അതാണ് ഞാൻ ഈ വരച്ച സ്കീമാറ്റിക് വഴി കാണിച്ചത് ജനറേറ്റുചെയ്യുന്ന വോൾട്ടേജ് DC ആണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ നമ്മൾ ഒരു ഇൻവെർട്ടർ വഴി അതിനെ AC യിലേക്ക് മാറ്റണം കൂടാതെ വിതറിയ കണികകൾ പരിസ്ഥിതിയിലേക്ക് പുറന്തള്ളപ്പെട്ടാൽ അപകടകരമാണ് അതിനാൽ പിടിച്ചെടുക്കുകയും വീണ്ടും ഉപയോഗിക്കുകയും വേണം ഒരു ചെറിയ കുറിപ്പോടെ നമ്മൾ ഇതു അവസാനിപ്പിക്കും പലരും ചോദിക്കുന്നു ഇതാണോ പാഴായ ചൂട് വീണ്ടെടുക്കൽ എന്നത് കാരണം നമ്മൾ അത് മാലിന്യ ഊർജ്ജത്തിന്റെ ഉറവിടമായി ഉപയോഗിക്കുന്നില്ല ചൂളകളിൽ ഉള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് 3000oC അല്ലെങ്കിൽ അതിലും ഉയർന്ന താപനിലയിലേക്ക് പോകാം പക്ഷേ ടർബൈനുകളിലെ ചില നിയന്ത്രണങ്ങൾ കാരണം നമ്മൾ അവിടെ അത് ചെയ്യുന്നില്ല അതിനാൽ നമുക്ക് 3000 ലേക്ക് പോകാം പക്ഷേ നമ്മൾ അത് ചെയ്യുന്നില്ല ഊർജ്ജത്തിന്റെ സാധ്യതയുള്ള ഒരു സ്രോതസ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിനാൽ ആ അർത്ഥത്തിൽ അത് പാഴായിപ്പോകുന്നു അല്ലാത്തപക്ഷം നമ്മൾ ഉപയോഗിക്കാത്ത ഊർജ്ജം ഇപ്പോൾ കുറച്ച് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമായി മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സ് നമുക്ക് കാണിച്ചുതരുന്നു അതിനാൽ ആ കുറിപ്പിനൊപ്പം മാഗ്നെറ്റോഹൈഡ്രോഡൈനാമിക്സിനെക്കുറിച്ചുള്ള ഈ പ്രഭാഷണം നമ്മൾ അവസാനിപ്പിക്കും അടുത്ത പ്രഭാഷണത്തിൽ താപോർജ്ജത്തെ വൈദ്യുതോർജ്ജത്തിലേക്ക് നേരിട്ട് പരിവർത്തനം ചെയ്യുന്നതിനുള്ള മറ്റൊരു സാങ്കേതികവിദ്യ നമ്മൾ പരിശോധിക്കും ഇതിനെ തെർമോ അയോണിക് ജനറേഷൻ എന്ന് വിളിക്കുന്നു വളരെ നന്ദി അടുത്ത ക്ലാസ്സിൽ കാണാം